ഒപ്റ്റിക്കൽ മെഷർമെന്റുകളും നാനോമെട്രോളജിയും എന്ന ചർച്ചയുടെ അടുത്ത അധ്യായത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് നാനോ അതായത് 10−9 മീറ്റർ ആണ് വളരെ ചെറിയ ഈ സ്കെയിലുകൾ നോക്കുമ്പോൾ മെറ്റീരിയൽ പ്രോസസ് സ്വഭാവത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ നമ്മൾ ശ്രമിക്കുന്നു അത്തരം ചെറിയ സ്കെയിലുകളിൽ അളവ് എങ്ങനെ സംഭവിക്കുന്നുവെന്നും ഒപ്റ്റിക്കൽ അളവുകൾ എങ്ങനെയാണെന്നും ഈ അളവെടുപ്പ് ഫീൽഡിൽ നമ്മെ സഹായിക്കാൻ പോകുന്നു എന്നത് കവർ ചെയ്യാൻ ശ്രമിക്കും ചർച്ചയുടെ ഉള്ളടക്കം ആമുഖമായി തുടരും അതിനുശേഷം നമുക്ക് ഒപ്റ്റിക്കൽ മെഷർമെന്റ് ടെക്നിക്കുകൾ ഒപ്റ്റിക്കൽ ഇടപെടൽ തുടർന്ന് വ്യത്യസ്ത തരം ഇന്റർഫെറോമെട്രി എന്നിവ ഉണ്ടാകും തുടർന്ന് നമുക്ക് സ്കെയിലുകൾ ഗ്രേറ്റിംഗുകൾ റെറ്റിക്കലുകളും ഉണ്ടാകും ഒടുവിൽ നമുക്ക് ചർച്ച ചെയ്യാൻ നാനോമെട്രോളജി ഉണ്ടാകും ആദ്യം നമുക്ക് പ്രകാശത്തെകുറിച്ച് മനസിലാക്കാൻ ശ്രമിക്കാം പ്രകാശം വൈദ്യുതകാന്തിക വികിരണമാണ് ശരി ഇത് 400 നാനോമീറ്റർ മുതൽ 700 നാനോമീറ്റർ വരെയുള്ള തരംഗദൈർഘ്യത്തിൽ പതിക്കുന്നു നമ്മൾ ഒരു തരംഗത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ പ്രകാശത്തെ നിർവചിക്കുന്ന ഘടകം ഫോട്ടോൺ ആണ് ഇതിനെ തീവ്രത എന്നും ഇതിനെ ആവൃത്തി എന്നും വിളിക്കുന്നു ശരി അപ്പോൾ തീവ്രത എന്താണ് പ്രകാശത്തിന് 3 അടിസ്ഥാന അളവുകൾ ഉണ്ട് പ്രകാശത്തിന് 3 അടിസ്ഥാന അളവുകൾ മാത്രമേയുള്ളൂ ഒന്ന് നിങ്ങൾ പ്രകാശത്തിന്റെ തീവ്രതയാണ് നിങ്ങൾ കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുന്നത് തീവ്രതയെ ആംപ്ലിറ്റ്യൂഡ് എന്ന് വിളിക്കുന്നു അത് നിങ്ങളുടെ തെളിച്ചവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഞാൻ പെർസെപ്ഷൻ ശരി തെളിച്ചത്തെക്കുറിച്ചുള്ള ധാരണ പറയും പിന്നെ ആവൃത്തി ആവൃത്തിയെ തരംഗദൈർഘ്യമായി പ്രതിനിധീകരിക്കുന്നു അത് നിറവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇത് ഒരു ധാരണയാണെന്ന് വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു ശരി അവസാനത്തേത് ധ്രുവീകരണമാണ് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പാരാമീറ്ററാണ് ഈ ധ്രുവീകരണത്തിൽ പ്രവർത്തിക്കുന്ന നിരവധി ഉപകരണങ്ങൾ ഉണ്ട് അത് ആംഗിൾ ഓഫ് വൈബ്രേഷൻ അല്ലാതെ മറ്റൊന്നുമല്ല ഇവയാണ് പ്രകാശത്തിനായുള്ള ത്രിമാന പാരാമീറ്ററുകൾ നിങ്ങൾക്ക് ഇത് കൈകാര്യം ചെയ്യാൻ കഴിയുമെങ്കിൽ അതിനെ മാറ്റുക നിങ്ങൾക്ക് ആവശ്യമുള്ളതെന്തും ലഭിക്കും ധ്രുവീകരണം എന്നത് ആംഗിൾ ഓഫ് വൈബ്രേഷൻ ആണ് പ്രകാശത്തിന്റെ 3 അടിസ്ഥാന അളവുകൾ ഇവയാണ് പ്രകാശത്തിന്റെ ഗുണങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമുക്ക് പ്രതിഫലനമുണ്ട് നമുക്ക് വ്യതിചലനമുണ്ട് അത് വസ്തുവിന്റെ അരികുകളിൽ പ്രകാശം വിതറുകയല്ലാതെ മറ്റൊന്നുമല്ല അതാണ് വ്യതിചലനം റെസല്യൂഷന്റെ പരിധി പിന്നെ അത് അപവർത്തനം ആണ് അത് മീഡിയത്തിൽ ഒരു മാറ്റം വരുമ്പോൾ പ്രകാശത്തെ വളയ്ക്കുക എന്നത് ആണ് ശരി ഇവിടെ നമ്മൾ എല്ലായ്പ്പോഴും സംസാരിക്കുന്നത് ലെൻസുകൾ വെളിച്ചം കേന്ദ്രീകരിക്കാൻ ഉപയോഗിക്കുന്ന തത്വങ്ങളെക്കുറിച്ചാണ് നിങ്ങൾക്ക് വിളക്ക് ഉപയോഗിക്കാം തുടർന്ന് വിപരീത സാങ്കേതിക വിദ്യകളിൽ എണ്ണ ഉപയോഗിക്കാം നമ്മൾ അപവർത്തന തത്വങ്ങളും ഉപയോഗിക്കുന്നു വ്യതിയാനവും അപവർത്തനവും വ്യത്യസ്തമാണ് തുടർന്ന് ധാരാളം ആപ്ലിക്കേഷനുകൾക്ക് സമഗ്രമായി ഉപയോഗിക്കുന്ന ഇന്റർഫെറെൻസിനെക്കുറിച്ച് നമ്മൾ നോക്കും ഇന്ന് നിങ്ങൾക്ക് ലീനിയർ ഡിസ്പ്ലേസ്മെന്റ് അളക്കണമെങ്കിൽ നമ്മൾ ഇന്റർഫെറോമെട്രി ടെക്നിക്കുകൾ അളക്കാൻ ഉപയോഗിക്കുന്നു ഇവിടെ പ്രകാശതരംഗം കുറയ്ക്കാനോ ചേർക്കാനോ കഴിയും നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്തും നിങ്ങൾക്ക് ലഭിക്കുമെന്നും അവസാനത്തേത് ധ്രുവീകരണമാണെന്നും ഞാൻ അവസാനമായി പറഞ്ഞതും ഇത് വൈബ്രേഷനാണ് ഒരു പ്രത്യേക വൈബ്രേഷൻ തലത്തിൽ മാത്രം പ്രകാശം അനുവദിക്കുന്നത് ഇത് വളരെ പ്രധാനമാണ് ധ്രുവീകരണം ഉപയോഗിച്ച് ഒപ്റ്റിക്കൽ ലെൻസുകളിൽ ധാരാളം ആപ്ലിക്കേഷനുകൾ പ്രതിഫലിപ്പിക്കുന്നു അവ കണ്ണടയിലും ഉപയോഗിക്കുന്നു ഇവ രണ്ടും നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തതെല്ലാം പ്രകാശത്തിന്റെ അടിസ്ഥാനങ്ങളാണ് പ്രകാശം വൈദ്യുതകാന്തിക വികിരണമാണ് നിങ്ങൾക്ക് ഇത് ഉപയോഗിച്ച് കളിക്കാൻ കഴിയും ഇത് 200 നാനോമീറ്റർ മുതൽ 700 നാനോമീറ്റർ വരെ തരംഗദൈർഘ്യത്തിൽ വരുന്നു പ്രകാശത്തെ നിർവചിക്കുന്ന പ്രാഥമിക കണിക ഫോട്ടോൺ ആണ് ഈ ഫോട്ടോൺ എനർജി പാക്കറ്റുകളുടെ തത്വത്തിൽ ലേസർ പ്രവർത്തിക്കുന്നു പ്രകാശത്തിന് അടിസ്ഥാനപരമായി അടിസ്ഥാന 3 അളവുകൾ ഉണ്ടാകാം ഒന്ന് തീവ്രത ആവൃത്തി ധ്രുവീകരണം 3 തത്ത്വങ്ങൾ പ്രതിഫലനം വ്യതിചലനം അപവർത്തനം ഇന്റർഫെറെൻസ് എന്നിവയാണ് അവ പ്രകാശത്തിന്റെ സവിശേഷതകളിൽ ഉപയോഗിക്കുന്നു അവ അളവുകൾക്കുള്ള ഉപകരണങ്ങൾ വികസിപ്പിക്കുന്നതിന് ഉപയോഗിക്കുന്നു വ്യവസായത്തിൽ പരിശോധനയും അളക്കലും നടത്തുന്നതിന് ഒപ്റ്റിക്കൽ മെഷർമെന്റ് ലളിതവും എളുപ്പവും കൃത്യവും വിശ്വസനീയവുമായ മാർഗ്ഗങ്ങൾ നൽകുന്നു ഇത് പ്രധാനമായും ബന്ധമില്ലാത്തതാണ് ഒരിക്കൽ അത് സമ്പർക്കം പുലർത്താത്തതാണെങ്കിലുംവളരെ ചെറിയ മിഴിവുകൾ അളക്കുന്നതിനുള്ള ഒരു വഴക്കം ഇത് നൽകുന്നു ഇത് വളരെ എളുപ്പത്തിൽ പ്ലേ ചെയ്യാനും കഴിയും ഉദാഹരണത്തിന് വളരെ വിശ്വസനീയമാകുമ്പോൾ നിങ്ങൾക്കാവശ്യമുള്ള വിവരങ്ങൾ നേടാനുള്ള പ്രോപ്പർട്ടികൾ നിങ്ങൾ മനസ്സിലാക്കി ശരി വളരെയധികം ദൂരം കടന്നുപോകുന്ന പ്രകാശത്തിന്റെ പാത വ്യത്യാസം അളക്കാൻ ശാസ്ത്രജ്ഞൻ ഒരു ഇന്റർഫെറോമീറ്റർ ഉപയോഗിച്ചു നമ്മൾ ഇന്റർഫെറോമീറ്ററുകൾ ഉപയോഗിക്കുന്നു അവർ പ്രകാശത്തിന്റെ തരംഗദൈർഘ്യം മീറ്ററിന്റെ അടിസ്ഥാനത്തിൽ അളക്കുന്നു അവർ പ്രകാശത്തിന്റെ തരംഗദൈർഘ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു മീറ്ററിനെ നിർവചിക്കുന്നത് കൂടുതൽ അർത്ഥവത്താണെന്ന് ഉടൻ മനസ്സിലാക്കി അവർ ആദ്യം തരംഗദൈർഘ്യത്തെ മീറ്ററിന്റെ അടിസ്ഥാനത്തിൽ നിർവചിച്ചു തുടർന്ന് മീറ്ററിനെ തരംഗദൈർഘ്യത്തിന്റെ അടിസ്ഥാനത്തിൽ നിർവചിക്കാൻ തുടങ്ങി കാരണം അത് വളരെ കൃത്യമായിരുന്നു ആമുഖത്തിൽ നമുക്ക് 2 കാര്യങ്ങളുണ്ട് അത് ഞാൻ ഇതിനകം ചർച്ചചെയ്തു ഒന്ന് അപവർത്തനം മറ്റൊന്ന് വ്യതിയാനം ആയിരിക്കും ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഒരു തുള്ളി വെള്ളം ഉണ്ടെങ്കിൽ ഇങ്ങനെയാണ് പ്രകാശം കടന്നുപോകുന്നത് പിന്നീട് സംഭവിക്കുന്നത് അത് കടന്നുപോകാനും വളയാനും ശ്രമിക്കും എന്നതാണ് ഇത് നമ്മൾ ഇടുന്ന സ്രോതസ്സിൽ നിന്നുള്ള പ്രകാശമാണ് ഇത് കുറഞ്ഞ അപവർത്തന സൂചികയുടെ ഒരു മാധ്യമമാണ് നിങ്ങൾക്ക് പ്രകാശ വളവുകൾ കാണാൻ കഴിയും ഇതിനെ ഒബ്ജക്റ്റിൽ നിന്ന് മുറിച്ചുമാറ്റി പിന്നീട് വളയുന്നു എന്ന് പറയുന്നു അത് മുറിച്ച് പിന്നീട് വളയുന്നു ശരി ഞാൻ വ്യതിചലനത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു പ്രകാശ സ്രോതസ്സ് വരും അപ്പോൾ നിങ്ങൾക്ക് ഒരു സ്ലിറ്റ് ഉണ്ടാകും നിങ്ങൾക്ക് പ്രകാശം കടന്നുപോകുന്നത് കാണാം ഈ സ്രോതസ്സിൽ പലതിലൂടെയും പ്രകാശം കടന്നുപോകും ഇത് ഒരു പ്രകാശ സ്രോതസ്സാണെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും ഇവിടെ നിങ്ങൾക്ക് 2 തരം ഇമേജുകൾ ഉണ്ടാകാം എന്നതാണ് ഒന്ന് സൃഷ്ടിപരമായ ചിത്രമാണ് ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഒരു പ്രകാശം ഇതുപോലെ വരുന്നു മറ്റ് പ്രകാശവും സമാനമാണ് ഇത് നിർമ്മിക്കുന്നതിന് തുല്യമാണ് നിങ്ങൾക്ക് ചേർക്കാനോ സൃഷ്ടിപരമായ ഫ്രിഞ്ച് പാറ്റേണുകൾ നൽകാനോ കഴിയും നിങ്ങൾക്ക് സബ്ട്രാക്റ്റീവ് ചെയ്യാൻ താൽപ്പര്യപ്പെടുമ്പോൾ 2 തരംഗദൈർഘ്യമുള്ള പ്രകാശം ഇതുപോലെ വരുന്നുവെന്ന് കരുതാം ഇവിടെ അത് മറ്റൊരു വഴിയിലാണ് അപ്പോൾ ഇവ രണ്ടും ചേർക്കുമ്പോൾ എന്ത് സംഭവിക്കും നിങ്ങൾക്ക് എല്ലായ്പ്പോഴും വളരെ കുറഞ്ഞ കുറയ്ക്കൽ പോലുള്ള എന്തെങ്കിലും ലഭിക്കും ഇത് ഒരു സബ്ട്രാക്റ്റീവ് ഇന്റർഫെറെൻസ് പാറ്റേൺ ആണ് ഇത് വ്യക്തമാണ് ഇത് നൽകിയ അഡിക്റ്റിവ് ഇന്റർഫെറെൻസ് പാറ്റേൺ ആണ് നിങ്ങൾ തരംഗദൈർഘ്യം ചേർത്തതായി കാണുന്നു ആംപ്ലിറ്റ്യൂഡ് ചേർത്തു ആംപ്ലിറ്റ്യൂഡ് ഈ ടെക്നിക്കുകൾ ഉപയോഗിച്ച് കുറയ്ക്കുന്നു നിങ്ങൾക്ക് പ്രകാശം ഉപയോഗിച്ച് കളിക്കാൻ ശ്രമിക്കാം ഒപ്റ്റിക്സിന്റെ തത്ത്വത്തിൽ സമഗ്രമായി ഉപയോഗിക്കുന്ന മൈക്രോസ്കോപ്പായ ഒരു തത്ത്വ ഉപകരണം നോക്കാം മൈക്രോസ്കോപ്പിന്റെ മാഗ്നിഫിക്കേഷന്റെ 2 പൊതു ഘട്ടങ്ങൾ ഒബ്ജക്ടീവ് ലെൻസും അതിനുശേഷം മാഗ്നിഫിക്കേഷൻ മറ്റൊന്ന് നമുക്ക് ഐപീസിനടുത്ത് ഉണ്ടാകും ശരി ഒബ്ജക്ടീവ് ലെൻസ് വർക്ക്പീസിന്റെ ഒരു ഇമേജ് l1 ന് സ്റ്റോപ്പിൽ സൃഷ്ടിക്കുന്നു സ്റ്റോപ്പ് ഇമേജിനെ ഐപീസിലൂടെ വലുതാക്കാനും ഐപീസിലൂടെ കാണാനും വലുതാക്കിയ വിർച്വൽ ഇമേജ് I2 നേടാൻ കഴിയുന്ന തരത്തിൽ ഫ്രെയിം ചെയ്യാനും കഴിയും ഓരോ ഘട്ടത്തിലും മാഗ്നിഫിക്കേഷൻ വർദ്ധിക്കുന്നു ഓരോ ഘട്ടത്തിലും മിതമായ മാഗ്നിഫിക്കേഷൻ ഉപയോഗിച്ച് വളരെ ഫലപ്രദമായ മാഗ്നിഫിക്കേഷൻ നേടാൻ കഴിയും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഓരോ ഘട്ടത്തിലും മാഗ്നിഫിക്കേഷൻ വർദ്ധിക്കുന്നു എന്നതാണ് നിങ്ങൾ നോക്കുമ്പോൾ ഇതാണ് I1 ഒബ്ജക്ടീവ് ലെൻസ് ഒരു ഇമേജ് ഉണ്ടാക്കുന്നുവെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു ഇത് ഒരു ഒബ്ജക്ടീവ് ലെൻസാണ് ഇത് ഒരു ഒബ്ജക്ടീവ് ലെൻസ് വശമാണ് ശരി ഇമേജ് ഒബ്ജക്ടീവ് ലെൻസ് ഒരു സ്റ്റോപ്പ് I1 ൽ വർക്ക്പീസിന്റെ ഒരു ഇമേജ് ഉണ്ടാക്കുന്നു തുടർന്ന് സ്റ്റോപ്പ് ഇമേജിനെ ഫ്രെയിം ചെയ്യുന്നു ഇത് ഐപീസിലൂടെ ഐപീസ് കാഴ്ച വലുതാക്കുന്നു I2 ൽ വലുതാക്കൽ സംഭവിക്കുന്നു ഇത് I2 ആണ് ശരി ഒടുവിൽ ഇത് ഒബ്ജക്ടീവ് ലെൻസാണ് ഇത് നിങ്ങളുടെ ഐപീസാണ് ഇതിനെ നിങ്ങൾ നോക്കുമ്പോൾ ഇത് ഐപീസ് ആണ് ഇത് ഒബ്ജക്ടീവ് ലെൻസാണ് ഇവിടെ ഒരു തലം ഉണ്ട് ഇവിടെ വർക്ക് ഉണ്ട് മാഗ്നിഫിക്കേഷൻ പല ഘട്ടങ്ങളിൽ സംഭവിക്കാം അതിനാൽ മിതമായ ലെൻസുകളിലൂടെ മാത്രമേ ഉയർന്ന മാഗ്നിഫിക്കേഷൻ നേടാനാകൂ ഒപ്റ്റിക്കൽ ഉപകരണത്തിന്റെ അവശ്യ സവിശേഷതകളിൽ ഒരു പ്രകാശ സ്രോതസ്സ് ഒരു കണ്ടൻസിംഗ് ലെൻസ് വർക്ക് പാർട്ട് സ്ഥാപിക്കാൻ അനുയോജ്യമായ ഒരു സ്റ്റേജ് അല്ലെങ്കിൽ ഒരു ടേബിൾ എന്നിവ ഉണ്ടായിരിക്കണം തുടർന്ന് പ്രൊജക്ഷൻ ഒപ്റ്റിക്സ് അടങ്ങിയ ലെൻസുകളും മിററുകളും തുടർന്ന് ഉപകരണങ്ങൾ കാണാനും അളക്കാനും റെക്കോർഡു ചെയ്യാനും സ്ക്രീൻ ഉണ്ടായിരിക്കണം ഒപ്റ്റിക്കൽ മൈക്രോസ്കോപ്പിന്റെ അവശ്യ ഭാഗങ്ങളിൽ ചിലത് ഇവയാണ് നിങ്ങൾക്ക് ഇവിടെ ഒപ്റ്റിക്കൽ മൈക്രോസ്കോപ്പ് കാണാം നമുക്കുള്ള ഒപ്റ്റിക്കൽ മൈക്രോസ്കോപ്പ് ഇത് ഒരു പ്രകാശ സ്രോതസ്സാണ് പ്രകാശ സ്രോതസ്സ് ഹെഡ്സെറ്റ് ഒരു ബീം സ്പ്ലിറ്റർ എന്നിവ ഉണ്ട് അത് വർക്ക്പീസിലേക്ക് നീങ്ങുന്നു ഇവിടെ ഒരു വർക്ക്പീസ് ഉണ്ട് വർക്ക്പീസ് ഒരു മേശപ്പുറത്ത് വിശ്രമിക്കുന്നു അതിന് X Y ദിശകളിലേക്ക് പോകാൻ കഴിയും നിങ്ങൾക്ക് അത് നീക്കാൻ കഴിയും തുടർന്ന് പ്രകാശം തിരികെ പ്രതിഫലിക്കും ഒരു പുനർനിർമ്മാണം നടക്കുന്നു ഒരു ഫ്രിഞ്ച് നടക്കുന്നു അത് CC ചാർജ് കപ്പിൾഡ് ഡിവൈസ് സെൻസറിൽ റെക്കോർഡുചെയ്യുന്നു ഈ ഒപ്റ്റിക്കൽ മൈക്രോസ്കോപ്പിൽ അവയ്ക്കും ഒരു ടച്ച് പ്രോബ് ഉണ്ടെന്നതും ശ്രദ്ധേയമാണ് ഇത് ഉയർന്നത് നൽകാൻ ഉപയോഗിക്കുന്നു ഇത് ഒരു ഏകദേശ എസ്റ്റിമേറ്റ് നൽകാൻ ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ പരുക്കൻ അല്ലെങ്കിൽ കുറഞ്ഞ മിഴിവുള്ള അളവുകൾ ഇവിടെ ചെയ്യാം തുടർന്ന് നമ്മൾ ഒപ്റ്റിക്സിലേക്ക് പ്രവേശിക്കുന്നു അതിൽ ഉയർന്ന റെസല്യൂഷൻ ഇവിടെ ചെയ്യാൻ കഴിയും കോ ആക്സിയൽ ഉപരിതലത്തിനും റിംഗ് പ്രകാശത്തിനുമുള്ള പ്രകാശ സ്രോതസ്സ് ഒരു പ്രകാശ സ്രോതസ്സ് വരുന്നു തുടർന്ന് ഇത് പോകാൻ കഴിയുന്ന ടച്ച് പ്രോബാണ് നിങ്ങൾക്ക് നീങ്ങാൻ കഴിയുന്ന ഫോക്കസിംഗിനായി Z ദിശയിലുള്ള സെൻസർ ഹെഡുകൾ ഈ ഭാഗം ഫോക്കസിംഗ് ശ്രദ്ധിക്കുന്നു കൂടാതെ ഈ XY പട്ടികയുടെ സഞ്ചാരത്തെ പരിപാലിക്കാൻ ശ്രമിക്കുന്നു വർക്ക്പീസ് മുഴുവൻ നിങ്ങൾക്ക് അളക്കാൻ കഴിയുമെന്ന് ഇത് അർത്ഥമാക്കുന്നു ഇതൊരു ഒപ്റ്റിക്കൽ മെഷർമെന്റ് സെൻസർ സജ്ജീകരണമാണ് ഇത് നാനോമീറ്റർ ലെവലിൽ ഉയരം അളക്കാൻ ഇന്ന് ഉപയോഗിക്കുന്നു ഒപ്റ്റിക്കൽ മാഗ്നിഫിക്കേഷൻ ഉപയോഗിച്ച് കോണുകൾ അളക്കാൻ ഉപയോഗിക്കുന്ന അടിസ്ഥാന ഉപകരണമാണ് ലളിതമായ പ്രൊജക്ടർ ഇത് മെട്രോളജിയിൽ ഏറ്റവും വ്യാപകമായി ഉപയോഗിക്കുന്ന സാങ്കേതികതയാണ് എന്നിരുന്നാലും ഒപ്റ്റിക്സിന് 3 പ്രധാന ആപ്ലിക്കേഷനുകൾ ഉണ്ട് വിന്യാസ ആപ്ലിക്കേഷനിൽ നമ്മൾ ഒപ്റ്റിക്സ് ഉപയോഗിക്കുന്നു ഇന്റർഫെറോമെട്രിയിൽ ദൂരം അളക്കുന്നതിന് നമ്മൾ ഒപ്റ്റിക്സ് ഉപയോഗിക്കുന്നു നീളത്തിന്റെ കേവല മാനദണ്ഡമായും ഇത് ഉപയോഗിക്കുന്നു അതാണ് ഇന്ന് നമ്മൾ നീളത്തെ 1 മീറ്റർ തരംഗദൈർഘ്യത്തിൽ അളക്കുന്നത് ഇവയാണ് അളവെടുപ്പിലെ ഒപ്റ്റിക്സിന്റെ മറ്റ് 3 അടിസ്ഥാന പ്രയോഗങ്ങൾ ഷോപ്പ് നിലയിലെ ഏറ്റവും സാധാരണയായി ഉപയോഗിക്കുന്ന ഒരു മൈക്രോസ്കോപ്പാണ് ടൂൾ മേക്കേഴ്സ് മൈക്രോസ്കോപ്പ് Tool Maker's Microscope മെട്രോളജിയിൽ ഉപയോഗിക്കുന്ന മൈക്രോസ്കോപ്പുകളിൽ ടൂൾ മേക്കേഴ്സ് മൈക്രോസ്കോപ്പുമായി നമ്മൾ കൂടുതൽ പരിചിതരാണ് ടൂൾ മേക്കേഴ്സ് മൈക്രോസ്കോപ്പ് Tool Maker's Microscope ഷോപ്പ് ഫ്ലോർ പരിശോധന ഉപകരണങ്ങളുടെയും മെഷീൻ ഭാഗങ്ങളുടെയും അളവ് എന്നിവ മുതൽ ഒരു അളവെടുക്കൽ മുറിയിലെ പരീക്ഷണ ഉപകരണങ്ങളുടെ കൃത്യത അളക്കുന്നതുവരെയുള്ള വിപുലമായ ആപ്ലിക്കേഷനെ പിന്തുണയ്ക്കുന്നു ഇത് ചെറിയ വ്യതിയാനങ്ങൾ അളക്കുന്നതിന് ഷോപ്പ് നിലയിലും കൂടാതെ ടൂൾ റൂമിലും ഉപയോഗിക്കുന്നു ശരി ഇവിടെ ഇത് പ്രധാനമായും ഉപകരണങ്ങൾ ആണ് ഇവിടെ മറ്റു വസ്തുക്കൾ ആണ് നമ്മൾ ഈ ടൂൾ മേക്കേഴ്സ് മൈക്രോസ്കോപ്പ് Tool Maker's Microscope ഉപയോഗിക്കുന്നു ടൂൾ മേക്കേഴ്സ് മൈക്രോസ്കോപ്പിന്റെ Tool Maker's Microscope പ്രധാന ഉപയോഗം ഇവിടെ ചെറിയ ഘടകങ്ങളുടെ ആകൃതി വലുപ്പം ആംഗിൾ സ്ഥാനം എന്നിവ അളക്കുക എന്നതാണ് ഇവിടെ നമ്മൾ ഡിഗ്രി കണക്കിലെടുത്ത് ആംഗിൾ കൃത്യത സംസാരിക്കുന്നു ആകാരം നിങ്ങൾ സഞ്ചരിക്കുന്ന ഘട്ടത്തെ ആശ്രയിച്ചിരിക്കുന്നു നമ്മൾ സംസാരിക്കുന്ന വലുപ്പം 0 01 മില്ലിമീറ്ററിനടുത്താണ് ടൂൾ മേക്കേഴ്സ് മൈക്രോസ്കോപ്പ് Tool Maker's Microscope ഉപയോഗിച്ച് ചെറിയ ഘടകങ്ങളുടെ സ്ഥാനം അളക്കാനും കഴിയും ഇത് ഒരു ലംബ പിന്തുണ കോളത്തെയാണ് അവതരിപ്പിക്കുന്നത് അത് കരുത്തുറ്റതും മൈക്രോസ്കോപ്പിന്റെ മറ്റെല്ലാ ഭാഗങ്ങളുടെയും ഭാരം വഹിക്കുന്നു ഇത് ഒരു നീണ്ട ലംബ പ്രവർത്തന ദൂരം നൽകുന്നു നിങ്ങൾക്ക് വലിയ വർക്ക്പീസുകൾ അവിടെ സൂക്ഷിക്കാൻ കഴിയുമെന്ന് പറയാം വർക്ക്പീസ് ഒരു XY സ്റ്റേജിൽ ലോഡുചെയ്യുന്നു ഇത് തിരശ്ചീന തലത്തിൽ 2 പ്രധാന ദിശകളിൽ വിവർത്തന ചലനത്തിനുള്ള വ്യവസ്ഥയുണ്ട് അത് XY എന്നിവയാണ് തുടർന്ന് XY എന്ന രണ്ടും മൈക്രോമീറ്ററുകൾ നൽകിയിരിക്കുന്നു നിങ്ങൾ നീങ്ങുമ്പോൾ മൈക്രോ അങ്ങനെ കാണുന്നു നിങ്ങൾക്ക് ഒരു പട്ടികയുണ്ട് എന്നാണ് അവർ പറയാൻ ശ്രമിക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് ഒരു മൈക്രോമീറ്റർ ഉണ്ടാകും ഇത് കറങ്ങുന്നതെന്തും നിങ്ങൾക്ക് വളരെ ചെറിയ കൃത്യതയോടെ അളക്കാൻ കഴിയും ഇത് ഒരു സാധാരണ ടൂൾ മേക്കേഴ്സ് മൈക്രോസ്കോപ്പാണ് Tool Maker's Microscope ലോഡ് എടുക്കാൻ ശ്രമിക്കുന്ന നിരയാണിത് ഇവിടെ ക്ലാമ്പ് ഉണ്ട് ഇത് നിങ്ങൾക്ക് ഈ ചലനത്തിന്റെ സ്വാതന്ത്ര്യം മുകളിലേക്കും താഴേക്കും നൽകുന്നു നിങ്ങൾക്ക് ഒരു ഫോക്കസിംഗ് നോബും ഉണ്ട് ഈ ഫോക്കസിംഗ് നോബും ക്ലാമ്പിംഗ് സ്ക്രൂവും ഉയരം അളക്കുന്നതിനുള്ള ക്രമീകരണങ്ങളിൽ നിങ്ങളെ സഹായിക്കുന്നു തുടർന്ന് നിങ്ങൾക്ക് ഒരു പട്ടികയുണ്ട് ഇവ അവിടെയുള്ള മൈക്രോമീറ്റർ സ്കെയിലുകളാണ് ഇത് Z അളവെടുപ്പിനുള്ളതാണ് ഇവിടെ നിങ്ങൾക്ക് ചലനത്തിനായി XY ടേബിൾ ഉണ്ട് ഇത് മൈക്രോമീറ്ററിലാണ് ഇത് രേഖാംശത്തിനുള്ളതാണ് ഇത് തിരശ്ചീന ദിശയ്ക്കാണ് ഇവിടെ ഇത് പ്രകാശമല്ല മറിച്ച് പ്രകാശ സ്രോതസ്സാണ് വസ്തുവിന്റെ മേൽ വീഴാൻ ശ്രമിക്കുന്ന ഒരു പ്രകാശ സ്രോതസ്സുണ്ട് അത് ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നു നിങ്ങൾ അത് അളക്കാൻ ശ്രമിക്കുക തുടർന്ന് കാണാൻ ശ്രമിക്കുക ആകൃതി വലുപ്പം ആംഗിൾ വളരെ ചെറിയ ഘടകങ്ങളുടെ അളവുകൾ എന്നിവയിലെ മാറ്റം എന്താണ് ഒരു ടൂൾ മേക്കേഴ്സ് മൈക്രോസ്കോപ്പിൽ Tool Maker's Microscope ക്രോസ് വയർ വിന്യസിക്കുന്നതിൽ നിന്നും റീഡിങ് എടുക്കുന്നതിനുള്ള വളരെ പ്രധാനപ്പെട്ട ഉപകരണമാണിത് നിങ്ങൾ പരന്ന ഭാഗം അല്ലെങ്കിൽ ലാൻഡ് അളക്കണം ശരി അതിനെ ലാൻഡ് എന്ന് വിളിക്കുന്നു നിങ്ങൾ അങ്ങനെ അളക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആദ്യം നിങ്ങൾ എന്തുചെയ്യും നിങ്ങൾ ഫോക്കൽ ഇട്ടു നിങ്ങൾ ഐപീസ് ചേർക്കുന്നു നിങ്ങൾക്ക് എല്ലായ്പ്പോഴും ഇത് ക്രോസ് വയർ പോലെയാണ് ഈ ക്രോസ് വയർ അരികിലെ ഒരു വശത്തേക്ക് വിന്യസിച്ചിരിക്കുന്നു അവിടെ ലാൻഡ് ആരംഭിക്കുകയും നിങ്ങൾ അത് ആരംഭിക്കുന്ന ലാൻഡിന്റെ മറ്റേ അറ്റത്തേക്ക് മാറ്റുകയും തുടർന്ന് റീഡിങ്ങുകൾ നേടാൻ ശ്രമിക്കുകയും ചെയ്യുന്നു ശരി ഇവിടെ മാഗ്നിഫിക്കേഷനുകളും ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾക്ക് ഐപീസിൽ 10 x 20 x തുടർന്ന് ഒബ്ജക്റ്റീവ് നിങ്ങൾക്ക് 2x 5x 10x എന്നിവ ഉണ്ടായിരിക്കാം നിങ്ങൾക്ക് പ്രവർത്തന ദൂരം കാണാൻ കഴിയും ഒബ്ജക്ടീവ് X വർദ്ധിക്കുമ്പോൾ പ്രവർത്തന ദൂരം ചെറുതായിത്തീരും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു പാരാമീറ്ററാണിത് നിങ്ങൾ വളരെ ഉയർന്ന മാഗ്നിഫിക്കേഷനുകൾ കാണാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ ജോലി ചെയ്യുന്ന ദൂരം ത്യജിക്കുകയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഇവ വ്യത്യസ്ത തരം പ്രകാശമാണ് ടൂൾ മേക്കേഴ്സ് മൈക്രോസ്കോപ്പിനെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ വിശദാംശങ്ങൾ ലഭിക്കും കോണ്ടൂർ പ്രകാശം നടത്താം ഇത്തരത്തിലുള്ള പ്രകാശം വർക്ക്പീസിന്റെ കോണ്ടൂർ ഇമേജ് സൃഷ്ടിക്കുന്നു കൂടാതെ വർക്ക്പീസ് കോണ്ടൂറുകൾ അളക്കുന്നതിനും പരിശോധിക്കുന്നതിനും ഇത് അനുയോജ്യമാണ് ഇത് ഗ്രീൻ ഫിൽട്ടർ കൊണ്ട് സജ്ജീകരിച്ചിരിക്കുന്നു നിങ്ങൾക്ക് സ്ഥാപിക്കാനും ശ്രമിക്കാം ഞാൻ 3 അടിസ്ഥാന പാരാമീറ്ററുകൾ പറഞ്ഞിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാം ഒന്ന് തരംഗദൈർഘ്യം വ്യാപ്തി ധ്രുവീകരണം നിങ്ങൾക്ക് ഈ പാരാമീറ്ററുകൾ ഉപയോഗിച്ച് കഴിയുമെങ്കിൽ ചിത്രത്തിൽ കൂടുതൽ വ്യക്തത നേടാൻ ശ്രമിക്കാം നിങ്ങൾ അളവെടുപ്പിനായി ഉപയോഗിക്കുന്നതെന്തും വളരെ സങ്കീർണ്ണമായ ഒരു ഇമേജ് വർക്ക്പീസ് ഉണ്ടെങ്കിൽ എന്ന് കരുതുക നമ്മൾ ചെയ്യുന്നത് അതിന്റെ ഒരു കോണ്ടൂർ നിർമ്മിക്കാൻ ശ്രമിക്കുക ഐപീസിൽ ഇടുക അല്ലെങ്കിൽ ഒരു പ്രൊജക്റ്റർ സ്ഥാപിക്കുക എന്നിട്ട് അത് അവിടെ ഒരു മാസ്കായി വയ്ക്കുക തുടർന്ന് വർക്ക്പീസ് അളവുകൾ സ്ക്രീനിൽ പ്രദർശിപ്പിക്കുക നിങ്ങൾക്ക് എളുപ്പത്തിൽ ഒരു താരതമ്യം ചെയ്യാനും വ്യതിയാനങ്ങൾ അളക്കാനും ശ്രമിക്കുക ഉപരിതല പ്രകാശം ഇത്തരത്തിലുള്ള പ്രകാശം വർക്ക്പീസിന്റെ ഉപരിതലമാണെന്ന് കാണിക്കുന്നു കൂടാതെ ഇത് വർക്ക്പീസ് ഉപരിതലങ്ങളുടെ നിരീക്ഷണത്തിലും പരിശോധനയിലും ഉപയോഗിക്കുന്നു ഇത് ടൂൾ മേക്കേഴ്സ് മൈക്രോസ്കോപ്പിനൊപ്പം വർക്ക്പീസ് ഉപരിതല പ്രകാശം കാണിക്കുന്നു ഇവിടെ നിങ്ങൾക്ക് കാണിച്ചത് ഉപരിതല പ്രകാശമാണ് ഉപരിതല പ്രകാശത്തിനുപകരം നിങ്ങൾക്ക് കോണ്ടൂർ പ്രകാശം ഉണ്ടാവാം അത് നമ്മൾ ആദ്യം ചർച്ചചെയ്തതാണ് ഇല്യുമിനേറ്റർ ക്രമീകരിക്കുമെങ്കിൽ ആംഗിളും ഓറിയന്റേഷനും ചെയ്യാം വർക്ക്പീസ് ഉപരിതലം ഒപ്റ്റിമൽ സാഹചര്യങ്ങളിൽ നിരീക്ഷിക്കാനും ഒരേസമയം കോണ്ടൂറും ഉപരിതല പ്രകാശവും ഇത് A ഇത് B ആണെന്ന് കരുതാനും കഴിയും ഇത് ഒന്നുമല്ല പക്ഷേ ടൂൾ വർക്ക്പീസ് വ്യതിയാനങ്ങൾ അളക്കുന്നതിന് A പ്ലസ് B കോണ്ടൂറും പ്രകാശവും ഒരേസമയം ചെയ്യാം ആപ്ലിക്കേഷനുകൾ എന്തൊക്കെയാണ് സ്ക്രൂ ത്രെഡുകൾ ഗിയറുകൾ മറ്റ് ചെറിയ മെഷീൻ ഭാഗങ്ങൾ എന്നിവയുടെ ഷോപ്പ് ഫ്ലോർ പരിശോധനയിൽ ഇത് ഉപയോഗിക്കുന്നു ടൂൾ റൂമുകളിലെ ടെസ്റ്റ് ഉപകരണങ്ങളുടെ കൃത്യമായ അളവ് അതിന്റെ അപ്ലിക്കേഷനിൽ ഉൾപ്പെടുന്നു ഇത് ചെറിയ ദ്വാരങ്ങളുടെ അളവുകൾ നിർണ്ണയിക്കാൻ സഹായിക്കുന്നു ഇത് മൈക്രോമീറ്ററുകളും കാലിപ്പറുകളും അളക്കാൻ കഴിയില്ല ഇത് ടെംപ്ലേറ്റ് പൊരുത്തപ്പെടുത്തൽ പരിശോധന സുഗമമാക്കുന്നു ഇത് ഒരു താരതമ്യക്കാരനെപ്പോലെയാണ് ഇത് ചെറിയ ഘടകങ്ങളിലും ടേപ്പറുകൾ പരിശോധിക്കാൻ പ്രാപ്തമാക്കുന്നു അടിസ്ഥാനപരമായി ആകൃതി വലുപ്പം ഓറിയന്റേഷൻ XYZ കോർഡിനേറ്റുകൾ എന്നിവയെല്ലാം ഈ ടൂൾ മേക്കേഴ്സ് മൈക്രോസ്കോപ്പ് Tool Maker's Microscope ഉപയോഗിച്ച് അളക്കാൻ കഴിയും